കീവേഡുകൾ പ്ലാന്റ് PID നിയന്ത്രണം ഫംഗ്ഷൻ നിയന്ത്രണ പെർഫോമൻസ് സുപ്രഭാതം ഇന്ന് നമ്മൾ കോഴ്സിന്റെ 13 ാം പാഠം പഠിക്കാൻ പോകുന്നു അത് PID കൺട്രോളർ ട്യൂണിംഗ് ആണ് മൊത്തത്തിലുള്ള കൺട്രോളർ രൂപകൽപ്പനയുടെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് കൺട്രോളർ ട്യൂണിംഗ് എന്ന് നമ്മൾ കാണും ഇത് നിയന്ത്രണ ലൂപ്പിന്റെ പ്രകടനത്തെ നിർണ്ണയിക്കുന്നു ഇത് ഉൽപ്പന്നത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെലവുകളെ ബാധിക്കുകയും ചെയ്യുന്നു വ്യാവസായിക ഓട്ടോമേഷൻറെ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണിത് പതിവ് രീതി പോലെ നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിന്റെ പ്രബോധന ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം അതിനാൽ ഓരോ പാഠത്തിനും മുമ്പായി നമ്മൾ പ്രസ്താവിക്കുന്നതുപോലെ വിദ്യാർത്ഥി പ്രാപ്തിയുള്ളവരാകണം ആദ്യം കൺട്രോളർ തരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രസ്താവിക്കുക പിഐഡി കൺട്രോളർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മൂന്ന് ക്ലാസ് കൺട്രോളറുകൾ അർത്ഥമാക്കുന്നു അതായത് പി കൺട്രോൾ പിഐ കൺട്രോൾ പിഐഡി കൺട്രോൾ എന്നിവ അതിനാൽ ഈ തരത്തിലുള്ള ഒന്ന് തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥിക്ക് കഴിയണം ഇപ്പോൾ ഈ തരങ്ങളിലൊന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ആ കൺട്രോളറിലെ ഗെയിൻ ഇന്റഗ്രൽ ടൈം ഡെറിവേറ്റീവ് ടൈം എന്നിങ്ങനെയുള്ള വിവിധ പാരാമീറ്ററുകൾ നൽകാനാകും നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനുള്ള വിവിധ രീതികൾ അവയെല്ലാം വിവിധ രീതികളിൽ നിയന്ത്രണ പ്രകടനത്തെ എങ്ങിനെ ബാധിക്കും എന്നിവയൊക്കെയാണ് ക്രമീകരണങ്ങളുടെ മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ കൺട്രോളർ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കുന്നു ആപ്ലിക്കേഷനെ ആശ്രയിച്ച് വിവിധ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാം കൂടാതെ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് മൂന്ന് മാനദണ്ഡങ്ങളെങ്കിലും പ്രസ്താവിക്കാൻ കഴിയും അപ്പോൾ അവനോ അവൾക്കോ PID ക്രമീകരണങ്ങൾ വിശകലനമായി കണക്കുകൂട്ടാൻ കഴിയും യഥാർത്ഥത്തിൽ കൺട്രോളർ പാരാമീറ്റർ മൂല്യങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ചില സാഹചര്യങ്ങളിൽ കൃത്യമായ പരിഹാരം സാധ്യമല്ല ചിലപ്പോൾ ഒരു റഫറൻസ് മോഡൽ ലഭ്യമായേക്കില്ല അതിനാൽ പരീക്ഷണാത്മക ഡാറ്റയെ അടിസ്ഥാനമാക്കി നമ്മൾ കൺട്രോളർ പാരാമീറ്റർ ക്രമീകരണങ്ങൾ സജ്ജീകരിക്കേണ്ടതുണ്ട് രണ്ട് അടിസ്ഥാന സമീപനങ്ങളുണ്ട് ഒന്ന് സ്റ്റെപ്പ് പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓപ്പൺ ലൂപ്പ് സമീപനമാണ് അതിനുള്ള നടപടിക്രമങ്ങൾ പ്രസ്താവിക്കാൻ നമുക്ക് കഴിയണം അടച്ച ലൂപ്പിനുള്ളതാണ് മറ്റ് സമീപനം അതിനാൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും അവസാനമായി പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ആയിരിക്കേണ്ട ചില കേസുകളുണ്ട് വളരെക്കാലം പ്രത്യേക പരീക്ഷണം നടത്താതെ സ്വഭാവം മാറി എന്ന് ചിന്തിക്കുമ്പോൾ പ്ലാൻറ് ഇനൻറ നേട്ടങ്ങൾ നിർണ്ണയിക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു പരീക്ഷണം നടത്താൻ കഴിയും അതിനെ ഓട്ടോ ട്യൂണിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഓട്ടോ ട്യൂണിംഗ് എന്താണെന്നും അത് എപ്പോഴാണ് ആവശ്യമെന്നും നിർവചിക്കാൻ വിദ്യാർത്ഥിക്ക് കഴിയണം ആവശ്യമുള്ളപ്പോൾ ഒരു സ്കീം വിവരിക്കുകയും ചെയ്യണം ശ്രദ്ധിക്കണം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടിസ്ഥാന കാര്യങ്ങളാണിവ ആദ്യം നമുക്ക് നിയന്ത്രണ പ്രകടനത്തിന്റെ ആശയം നോക്കാം ഇത് ഒരു രാസ പ്രക്രിയ നിയന്ത്രണം ആണെങ്കിലും അതോ ഒരു ഉരുക്ക് നിലയം ആണെങ്കിലും നിയന്ത്രണ പ്രകടനം ഉൽപ്പന്ന ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് എല്ലായ്പ്പോഴും ഉൽപ്പന്ന ഗുണനിലവാരത്തെ ബാധിക്കും കൂടാതെ സവിശേഷതകൾ നിറവേറ്റുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യങ്ങൾ പ്രസ്താവിച്ചതുപോലെ ഓരോ പ്ലാൻറിനും ഓരോ ഉൽപ്പന്നത്തിനും ചില പ്രഖ്യാപിത ഗുണങ്ങളും അവയുടെ പരിധികളും ഉണ്ട് അതിനാൽ നമുക്ക് പരിധി പാലിക്കാൻ കഴിയണം നമുക്ക് ഉദ്ദേശിച്ച് നിലവാരം കിട്ടിയില്ലെങ്കിൽ ചിലവ് ഉയരുന്നു കാരണം ഇന്നത്തെ കർശനമായ ഗുണനിലവാര നിയന്ത്രണ കാലഘട്ടത്തിൽ നമ്മൾ ഫാക്ടറിയിൽ എന്തെങ്കിലും ഉൽപാദിപ്പിച്ചേക്കാം പക്ഷേ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വിൽക്കാൻ കഴിഞ്ഞേക്കില്ല സവിശേഷതകൾ പാലിക്കാത്തതിനാൽ ധാരാളം അവശിഷ്ടം ഉണ്ടാവാം ധാരാളം മെറ്റീരിയലും ഊർജ്ജവും നഷ്ടപ്പെടും അതിനാൽ ചെലവ് വർദ്ധിക്കും മറുവശത്ത് നിങ്ങൾ അമിതമായി തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ചെലവും കൂടാം കാരണം നമുക്ക് അനാവശ്യമായി കൂടുതൽ സങ്കീർണമായ ഉപകരണങ്ങളും കൂടുതൽ ശുദ്ധീകരിച്ച അസംസ്കൃത വസ്തുക്കളും ആവശ്യമായി വന്നേക്കാം നിയന്ത്രണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം യഥാർത്ഥത്തിൽ വ്യക്തമാക്കിയ സവിശേഷതകൾ പാലിക്കുക എന്നതാണ് ആവശ്യം ഇത് ലംഘിക്കരുത് അല്ലെങ്കിൽ സവിശേഷതയുടെ പരിധിക്കപ്പുറം അത് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കരുത് വിവിധ ആപ്ലിക്കേഷനുകളിലെ ഒരു നിയന്ത്രണ ലൂപ്പിന്റെ പ്രകടനങ്ങൾ യഥാർത്ഥത്തിൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം എങ്ങനെ തീരുമാനിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമ്മൾ ഗുണനിലവാര നിർണ്ണയത്തിലേക്ക് നോക്കുകയാണ് ഉദാഹരണത്തിന് നമുക്ക് ഒരു റോളിംഗ് പ്രക്രിയ നോക്കാം എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു റോളിംഗ് പ്രക്രിയ കാണുകയാണെങ്കിൽ രണ്ട് റോളുകളും ചില മെറ്റീരിയലുകളും ഉണ്ട് ചില പ്ലേറ്റ് കുറച്ച് കട്ടിയുള്ളതായി വരുന്നു അത് പുറത്തുപോകുമ്പോൾ കനം കുറഞ്ഞു വരുന്നു അതിനാൽ റോളിംഗിലൂടെ ഒരു അളവ് കുറയ്ക്കൽ ഉണ്ട് അതാണ് റോളിംഗ് പ്രക്രിയയുടെ ജോലി ഇപ്പോൾ വ്യക്തമായും നിരവധി കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളുടെ പൂർത്തിയായ ഉൽപ്പന്നത്തിന്റെ വ്യാസം കർശനമായി നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഇത് നിർണ്ണായകമായി റോൾ വിടവിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ചില പ്ലസ് മൈനസ് പരിധിക്കുള്ളിൽ ഒരു കനം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും പ്രസ്താവിക്കുന്നു നിങ്ങളുടെ ഉൽപ്പന്നം നിങ്ങളുടെ സവിശേഷതകൾ ലംഘിക്കാൻ പോകുന്നുണ്ടോ എന്നത് യഥാർത്ഥത്തിൽ പരമാവധി ആശ്രയിച്ചിരിക്കുന്നു അതാണ് പിശകിന്റെ പരമാവധി വ്യാപ്തി അതിനാൽ റോൾ വിടവ് d ആയിരിക്കട്ടെ യഥാർത്ഥ റോൾ വിടവ് d ആണെങ്കിൽ അത് അന്തിമ ഉൽപ്പന്ന കനത്തിൽ ഒരു പിശകിലേക്ക് നയിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ പിശകിന്റെ വ്യാപ്തി യഥാർത്ഥത്തിൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം തീരുമാനിക്കുന്നു നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം അതിനാൽ ആ ഉദാഹരണത്തിൽ നമ്മൾ ഒരു പെട്രോളിയം റിഫൈനറിയിലെ കോമ്പോസിഷൻ നിയന്ത്രണം നോക്കുന്നു അപ്പോൾ അവിടെ എന്താണ് ഉൽപ്പന്നം പെട്രോൾ അല്ലെങ്കിൽ മണ്ണെണ്ണ പോലുള്ള ചില ഹൈഡ്രോകാർബൺ ഇന്ധനമാണ് ഉൽപ്പന്നം ഇപ്പോൾ ഉൽപ്പന്നം നിർമ്മിച്ച ശേഷം അത് ചില ടാങ്കുകളിൽ സൂക്ഷിക്കാൻ പോകുന്നു ഒടുവിൽ ടാങ്ക് നിറച്ചുകഴിഞ്ഞാൽ അത് ഒടുവിൽ ഉപഭോക്താവിന് എത്തിക്കാൻ പോകുന്നു ഇപ്പോൾ നിങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ എന്താണ് ടാങ്കിലെ ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ യഥാർത്ഥത്തിൽ ഇന്റഗ്രൽ വ്യതിക്രമം ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ഒക്ടേൻ നമ്പറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കരുതുക ചിലപ്പോൾ ഒക്ടേൻ നമ്പർ കുറച്ച് സമയത്തേക്ക് അൽപ്പം ഉയർന്നതായിരിക്കും നിങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് അൽപ്പം കുറവായിരിക്കും ഇപ്പോൾ ആ ഉൽപ്പന്നമെല്ലാം യഥാർത്ഥത്തിൽ ടാങ്കിലേക്ക് പോകുന്നു അവ മിശ്രിതമാവുകയാണ് നിങ്ങൾ വ്യക്തമാക്കാൻ പോകുന്നത് ശരാശരി ഒക്ടേൻ നമ്പറാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ഇന്റഗ്രൽ വ്യതിക്രമാണ് അതാണ് നിങ്ങൾ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒക്ടേൻ നമ്പറിൽ നിന്നുള്ള വ്യതിചലനം അത് അന്തിമ നിലവാരം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ് അതിനാൽ ഈ ആപ്ലിക്കേഷനിൽ നിർണ്ണായകമായ പിശക് ഇന്റഗ്രൽ വ്യതിക്രമാണ് ലൂപ്പ് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇന്റഗ്രൽ വ്യതിക്രമം യഥാർത്ഥത്തിൽ കുറയ്ക്കുന്ന തരത്തിൽ നമ്മൾ ശ്രമിക്കണം അതുപോലെ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ചില രാസപ്രക്രിയകളുടെ ഡിസ്ചാർജ് സ്ട്രീമിലെ പിഎച്ച് നിയന്ത്രണം അതിനാൽ ഇന്നത്തെ കർശനമായ പാരിസ്ഥിതിക ഭരണകൂടങ്ങളിൽ നിങ്ങൾ ഒരു നദിയിലേക്ക് കുറച്ച് മാലിന്യങ്ങൾ പുറന്തള്ളുന്നുവെന്ന് കരുതുക പിഎച്ച് ഘടകം അത് അസിഡിക് അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ നിഷ്പക്ഷമോ ആകട്ടെ കഴിയുന്നത്ര നിഷ്പക്ഷതയോട് അടുത്ത് ആയിരിക്കണം ഇത് അസിഡിക് അല്ലെങ്കിൽ ബേസിക് ആയിരിക്കരുത് അതിനാൽ നദിയിലേക്ക് മലിനജലം നേരിട്ട് പുറന്തള്ളുന്ന ഒരു ടാങ്കും ഇല്ലാത്തതിനാൽ ശരാശരി ഇല്ലെന്ന് ഇപ്പോൾ ഓർക്കുക അതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് പോസിറ്റീവ് പിശക് ഉണ്ടെങ്കിൽ അത് അസിഡിറ്റി ആണെന്ന് അർത്ഥമാക്കാം അതും മോശമാണ് കൂടാതെ നെഗറ്റീവ് പിശകാണെങ്കിൽ അത് മോശവുമാണ് ഈ സാഹചര്യത്തിൽ പോസിറ്റീവ് പിശക് നെഗറ്റീവ് പിശക് റദ്ദാക്കില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ ഇന്റഗ്രൽ ഒരു പിശക് തിരഞ്ഞെടുക്കുന്നത് ശരിയായിരിക്കില്ല കാരണം നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് അസിഡിക് മാലിന്യങ്ങൾ പുറപ്പെടുവിക്കാനും കുറച്ച് സമയത്തേക്ക് ബേസിക് മലിനജലം പുറപ്പെടുവിക്കാനും കഴിയില്ല തുടർന്ന് എന്റെ ശരാശരി ഇന്റഗ്രൽ പിശക് യഥാർത്ഥത്തിൽ പൂജ്യമാണെന്ന് പറയുക അത് ശരിയായിരിക്കില്ല അതിനാൽ അത്തരം പ്രക്രിയകൾക്കായി പിശകിന്റെ സമ്പൂർണ്ണ മൂല്യമായ കാലക്രമേണ സംയോജിപ്പിച്ചിരിക്കുന്ന പിശകിന്റെ ഇന്റഗ്രൽ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം അതിനാൽ ഈ ഉദാഹരണങ്ങളിൽ ആപ്ലിക്കേഷനെ ആശ്രയിച്ച് പിശകുകളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത പ്രകടന മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ ചെയ്യുമെന്ന് ഇപ്പോൾ നോക്കാം പിഐഡി കൺട്രോളർ ട്യൂണിംഗ് പ്രക്രിയയിൽ നിങ്ങൾ പാരാമീറ്ററുകൾ ട്യൂൺ ചെയ്യുന്നതിന് മുമ്പുതന്നെ കൺട്രോളർ തരങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നറിയപ്പെടുന്നവ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഒരു പി കൺട്രോളറോ പിഐ കൺട്രോളറോ പിഐഡി കൺട്രോളറോ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ നിർണ്ണയിക്കണം എല്ലായ്പ്പോഴും നിങ്ങൾ ലളിതമായ കൺട്രോളർ തിരഞ്ഞെടുക്കണം അതിനാൽ പി നിയന്ത്രണം എപ്പോൾ മതിയാവും എപ്പോൾ മതിയാവില്ല എന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എപ്പോഴാണ് നമ്മൾ പിഐക്ക് പോകേണ്ടത് അതും മതിയായതല്ലാത്തപ്പോൾ നമ്മൾ പിഐഡിക്ക് പോകണം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം കൺട്രോളർ തരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഏതാണ് കൃത്രിമമായ വേരിയബിൾ എന്ന് നമ്മൾ ഇതിനകം തിരഞ്ഞെടുത്തുവെന്ന് അനുമാനിക്കാം കാരണം ചിലപ്പോൾ വ്യത്യസ്ത കൃത്രിമ വേരിയബിളുകൾ തിരഞ്ഞെടുത്ത് ഒരേ നിയന്ത്രണ പ്രകടനം നേടാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് വളരെ സാധാരണമായ ഒരു ഉദാഹരണം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഇത് ഒരു എയർ കണ്ടീഷൻ ചെയ്ത മുറിയാണ് ഈ മുറിയുടെ താപനില നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ എനിക്ക് സ്ഥിരമായ താപനില വായു എടുക്കാം ഈ മുറിയിൽ ഇപ്പോൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ താപനില പിശകിനെ ആശ്രയിച്ച് എനിക്ക് സെക്കൻഡിൽ കൂടുതലോ കുറവോ വായു അയയ്ക്കാൻ ശ്രമിക്കാം അതിനാൽ എനിക്ക് ഒന്നുകിൽ വോളിയം ഫ്ലോ റേറ്റ് നിയന്ത്രിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ വോളിയം ഫ്ലോ റേറ്റ്flow rate0 ഞാൻ നിയന്ത്രിക്കില്ല അതിനാൽ ഞാൻ അതേ വേഗതയിൽ ഫാൻ പ്രവർത്തിപ്പിക്കാൻ പോകുന്നു എന്നാൽ തള്ളിവിടുന്ന വായുവിന്റെ താപനില ഞാൻ നിയന്ത്രിക്കാൻ പോകുന്നു അതിനാൽ നിയന്ത്രിത വേരിയബിളായ മുറിയുടെ താപനില നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു ഒന്നുകിൽ വായുവിന്റെ ഒഴുക്ക് നിരക്ക് ഒരു കൃത്രിമ വേരിയബിളായി തിരഞ്ഞെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു കൃത്രിമ വേരിയബിളായി വായുവിന്റെ താപനില അതിനാൽ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഇതിനകം നടന്നിട്ടുണ്ടെന്ന് ഇവിടെ നമ്മൾ അനുമാനിക്കുന്നു ഇപ്പോൾ നമ്മൾ ലൂപ്പ് ശരിയാക്കി നമുക്ക് കൺട്രോളർ തരങ്ങളും ആ പാരാമീറ്ററുകളിലെ കൺട്രോളർ പാരാമീറ്റർ ക്രമീകരണങ്ങളും മാത്രo തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യം നമുക്ക് പി നിയന്ത്രണം നോക്കാം പി നിയന്ത്രണം മിക്ക കേസുകളിലും ഓഫ്സെറ്റുകളിലേക്ക് നയിക്കുന്നുവെന്ന് ഇപ്പോൾ നമുക്കറിയാം അതിനാൽ ഗെയിനിൻറെ പ്രായോഗിക മൂല്യങ്ങളുമായി ആ ഓഫ്സെറ്റ് സ്വീകാര്യമാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പി നിയന്ത്രണം ഉപയോഗിക്കാൻ കഴിയൂ ഗെയിനിൻറെ പ്രായോഗിക മൂല്യം എന്നതിന്റെ അർത്ഥമെന്താണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഗെയിൻ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് രണ്ട് കാരണങ്ങളാൽ ഗെയിൻ വർദ്ധിപ്പിക്കാൻ കഴിയില്ല ഒരു കാരണം സ്ഥിരതയാണ് നിങ്ങൾ വീണ്ടും വളരെയധികം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രക്രിയ അസ്ഥിരമാകാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് പലപ്പോഴും ആക്ച്യുവേറ്റർ പരിമിതികളുണ്ട് അതിനാൽ നിങ്ങൾ നേട്ടം വർദ്ധിപ്പിക്കുകയാണെങ്കിലും പ്രക്രിയയ്ക്ക് കൂടുതൽ ഇൻപുട്ട് നൽകാൻ നിങ്ങൾക്ക് കഴിയാത്തത് സംഭവിക്കാം നമ്മൾ അത് പ്രായോഗികമെന്ന് അനുമാനിക്കും P നിയന്ത്രണം ഉപയോഗിക്കാവുന്നത് Kc യുടെ പ്രായോഗിക മൂല്യത്തിനൊപ്പം ഉയരുന്ന ഓഫ്സെറ്റ് നിയന്ത്രണം സ്വീകാര്യമാകുമ്പോൾ ആണ് രണ്ടാമത്തെ കാര്യം ചില പ്രക്രിയകൾ കണ്ടതുപോലെ നമുക്ക് ഒരു ടാങ്ക് ഉണ്ടെന്ന് കരുതാം മൊത്തത്തിലുള്ള ലൂപ്പ് ഗെയിൻ കുറഞ്ഞത് ലൂപ്പിൽ ഒരു ഇന്റഗ്രേറ്റർ ഉണ്ടായിരിക്കണം എന്നതാണ് പൂജ്യം ഓഫ്സെറ്റിനുള്ള വ്യവസ്ഥ എന്ന് നമ്മൾ കണ്ടു അതിനാൽ ആ ഇന്റഗ്രേറ്റർ കൺട്രോളറിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ അത് പ്ലാന്റിൽ ഉൾപ്പെടുത്താം പ്ലാന്റിൽ ഇതിനകം ഒരു ഇന്റഗ്രേറ്റർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രൊപോഷണൽ കൺട്രോളറുമൊത്ത് പോലും നിങ്ങൾക്ക് ഓഫ്സെറ്റ് ലഭിക്കില്ല അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ സാധാരണയായി ലിക്വിഡ് ലെവൽ കൺട്രോൾ അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഒരു ടാങ്കിൽ ദ്രാവകങ്ങൾ നിറയ്ക്കുന്നു പ്ലാന്റിന് ഒരു ഇന്റഗ്രേറ്റർ ഉണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പി നിയന്ത്രണം ഉപയോഗിക്കാം നിങ്ങൾക്ക് ലിക്വിഡ് ലെവൽ അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ നിയന്ത്രിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു സാഹചര്യം നോക്കാം ദ്രാവക നിലയിലോ ഗ്യാസ് പ്രഷർ നിയന്ത്രണത്തിലോ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ഇന്റഗ്രേറ്റർ ഉണ്ട് അത് നിരന്തരം ദ്രാവകം ഒഴുകുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ദ്രാവകം വറ്റിക്കുകയാണെങ്കിൽ അത് ഒരു യഥാർത്ഥ ഇന്റഗ്രേറ്റർ അല്ല എന്നാൽ പലപ്പോഴും ലെവലിന്റെ നിയന്ത്രണം അത്ര നിർണായകമല്ല അതാണ് പി നിയന്ത്രണ ലൂപ്പിന് കാരണമാകുന്ന സ്റ്റെഡി സ്റ്റേറ്റ് പിശക് യഥാർത്ഥത്തിൽ ലോഡിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ലോഡ് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്തതിനാൽ സ്ഥിരമായ പിശക് അല്പം മാറിക്കൊണ്ടിരിക്കും എന്നാൽ മിക്ക കേസുകളിലും പ്രത്യേകിച്ചും നമുക്ക് ടാങ്കുകൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ സിലിണ്ടറുകൾ ഉള്ളപ്പോൾ നമ്മളുടെ ഏക ലക്ഷ്യം ഗ്യാസ് മർദ്ദം അല്ലെങ്കിൽ ദ്രാവക നില ഒരു നിശ്ചിത പരിധിക്കു താഴെയാകരുത് എന്നതാണ് അതിനാൽ ആ പരിധിക്കുള്ളിൽ അൽപം വ്യത്യാസമുണ്ടെങ്കിൽ അത് പൊതുവെ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ പദ്ധതിയിൽ ഒരു ഇന്റഗ്രേറ്റർ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും പ്രൊപോഷണൽ നിയന്ത്രണം ഉള്ളത് ശരിയാണ് എന്നാൽ സ്ഥിരമായ ഒരു ഓഫ്സെറ്റ് സഹിക്കാൻ കഴിയാത്ത വിവിധ സാഹചര്യങ്ങളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ PI നിയന്ത്രണത്തിനായി പോകണം അതിനാൽ P നിയന്ത്രണം അസ്വീകാര്യമായ ഓഫ്സെറ്റിന് കാരണമാകുമ്പോൾ PI നിയന്ത്രണം പരിഗണിക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ഓഫ്സെറ്റും ആവശ്യമില്ല നിങ്ങൾ PI നിയന്ത്രണം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്ക് സ്റ്റെഡി സ്റ്റേറ്റ് പിശക് ഉറപ്പാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം പിഐ നിയന്ത്രണത്തിൽ സാധാരണയായി സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഐ ആക്ഷൻ കാരണം ലൂപ്പ് സ്ഥിരത കൈവരിക്കുന്നു എന്നതാണ് ലൂപ്പ് സാധാരണയായി ഓസിലേറ്റ് ചെയ്യുന്ന പ്രവണതയുണ്ട് ഇത് പരിഹരിക്കാൻ കുറച്ച് സമയമെടുക്കും ആ അർത്ഥത്തിൽ ലൂപ്പ് അല്പം മന്ദഗതിയിലാകുന്നു ഇനി നമുക്ക് ഇത് നോക്കാം അതിനാൽ ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് പരിഗണിക്കുക നിങ്ങളുടെ പുതിയ സെറ്റ് പോയിന്റാണ് ഇത് മാറ്റിയത് കൂടാതെ പിഐ നിയന്ത്രണത്തിലുള്ള പ്ലാന്റ് ഇതുപോലെ ഓസിലേറ്റ് ചെയ്യുകയും ഒടുവിൽ സ്റ്റെഡി സ്റ്റേറ്റ് പിശക് നേടുകയും ചെയ്യുന്നു ഈ ഓസിലേഷൻ എപ്പോഴാണ് സ്വീകാര്യമാകുക എന്നതാണ് ഇപ്പോൾ ചോദ്യം അതായത് ഈ പിശകുകൾ എപ്പോഴാണ് സ്വീകാര്യമാകുക ഓരോ തവണയും ഒരു നിശ്ചിത സെറ്റ് പോയിന്റ് മാറ്റം വരുമ്പോൾ അത്തരം ആന്ദോളനം ഉണ്ടാവും അപ്പോൾ അവ സ്വീകാര്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തും അത് താഴേയ്ക്ക് വരും അത് താഴേയ്ക്ക് വന്നതിനുശേഷം ലൂപ്പ് കൃത്യമായി പൂജ്യം സ്റ്റെഡി സ്റ്റേറ്റ് പിശക് കൈവരിക്കും അതിനാൽ ഈ ഇടവേളയിൽ സെറ്റ് പോയിന്റ് മാറ്റങ്ങളുടെ ആവൃത്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചില പിശകുകൾ ഉണ്ട് ഈ കാലയളവിൽ പോലും ചില പിശകുകളുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇന്റഗ്രൽ പിശക് മാനദണ്ഡമുണ്ടോ എന്നതിനെ ആശ്രയിച്ച് എന്റെ നിയന്ത്രണ പ്രകടനത്തെ ബാധിച്ചേക്കാം ഈ പോസിറ്റീവ് പിശക് ഈ നെഗറ്റീവ് പിശക് റദ്ദാക്കാൻ പോകുന്നതിനാൽ ഇത് ബാധിക്കപ്പെടും പക്ഷേ അപ്പോഴും ഈ തെറ്റ് സഹിക്കാൻ കഴിയും കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ കുറയും തുടർന്ന് അത് വളരെക്കാലം തുടരും അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഇടവേള യഥാർത്ഥത്തിൽ ചെറുതാണ് അതായത് സെറ്റ് പോയിന്റ് മാറ്റത്തിന്റെ ആവൃത്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓപ്പൺ ലൂപ്പ് ഡൈനാമിക്സ് യഥാർത്ഥത്തിൽ വേഗതയേറിയതാണ് അടച്ച ലൂപ്പ് ക്ഷണിക പ്രതികരണം യഥാർത്ഥത്തിൽ സ്വീകാര്യമാണ് ഫ്ലോ നിയന്ത്രണം സാധാരണ ഉദാഹരണമാണ് ഫ്ലോ നിയന്ത്രണത്തിൽ സ്റ്റെപ്പ് റെസ്പോൺസ് യഥാർത്ഥത്തിൽ വളരെ വേഗതയുള്ളതാണ് അതിനാൽ നിങ്ങൾ ഒരു PI കൺട്രോളർ ഉൾപ്പെടുത്തിയാലും അത് ആ ഇടവേളയിൽ കുറച്ച് സമയത്തേക്ക് ഓസിലേറ്റ് ചെയ്യും ഫ്ലോ നിയന്ത്രണം ഉപയോഗിച്ച് നിങ്ങൾ താപനില നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക ഇത് വളരെ സാധാരണമാണ് റിയാക്ടറിലെ താപനില നിലനിർത്തുന്നതിന് നീരാവി ഫ്ലോ റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ഫ്ലോ ലൂപ്പിന്റെ സ്ഥിരതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റിയാക്റ്റർ താപനില സെറ്റ് പോയിന്റ് മാറ്റം വളരെ വിരളമായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ PI നിയന്ത്രണം ധാരാളമായി എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇത് അങ്ങനെയല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ടാകാം പ്ലാന്റ് തന്നെ മന്ദഗതിയിലാകുകയും ഇത് പിന്നെയും മന്ദഗതിയിലാക്കുക ചെയ്യുന്നത് അഭികാമ്യമല്ല അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു പ്ലാന്റ് വേഗത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഗെയിൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പിഐ നിയന്ത്രണത്തിലെ ഗെയിൻ വർദ്ധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അത് അസ്ഥിരതയിലേക്ക് അടുക്കും നമ്മൾ കണ്ടതുപോലെ ഡെറിവേറ്റീവ് പദങ്ങൾ ചേർത്തുകൊണ്ട് നമ്മൾ ആ അധിക ഘട്ടം ശരിയാക്കണം നാണയത്തിന്റെ ഇരുവശങ്ങളും ഉണ്ടായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നല്ല സ്റ്റെഡി സ്റ്റേറ്റ് പ്രകടനം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ അർത്ഥത്തിൽ സ്റ്റെഡി സ്റ്റേറ്റ് പിശക് ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് PI നേടാനാകുമെന്ന് അറിയാം PI യിൽ നിന്നും PID നിയന്ത്രണത്തിൽ നിന്നും അത് നേടാം അതേസമയം ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിനോടുള്ള എന്റെ ട്രാൻസിയൻറ്റ് പ്രതികരണം PID കൺട്രോളറിനേക്കാൾ മികച്ചതാണ് അത്തരമൊരു സാഹചര്യത്തിൽ PI കൺട്രോളർ മന്ദഗതിയിലാക്കുന്നത് അസ്വീകാര്യമാണ് നിങ്ങൾക്ക് ഒരു ഡെറിവേറ്റീവ് പദം ഉള്ളതിനാൽ നിങ്ങൾക്ക് വലിയ ഗെയിൻ നേടാൻ കഴിയുന്നതിനാൽ ഒരു പിഐഡി നിയന്ത്രണം ഉപയോഗിച്ച് അത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും മൾട്ടി കപ്പാസിറ്റി പ്രോസസ്സിൽ നിങ്ങൾ താപനിലയോ കോമ്പോസിഷൻ നിയന്ത്രണമോ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനാലാണ് നിങ്ങൾ PID നിയന്ത്രണം ഉപയോഗിക്കുന്നത് കാരണം ഏത് സാഹചര്യത്തിലും ഗെയിൻ ഉണ്ടാക്കാനുള്ള ട്രാൻസിയൻറ്റ് പ്രതികരണം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ പൂജ്യം സ്റ്റെഡി സ്റ്റേറ്റ് പിശകിന്റെ പ്രതികരണത്തിലെ നേട്ടം കൊണ്ട് ആഗ്രഹിക്കുന്നില്ല അതിനാൽ P PI അല്ലെങ്കിൽ PID നിയന്ത്രണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള വിശാലമായ നിയമങ്ങൾ ഇവയാണ് ഇപ്പോൾ ഇവ തിരഞ്ഞെടുത്ത ശേഷം നമ്മൾ കൺട്രോളർ ക്രമീകരണങ്ങളിലേക്കും കൺട്രോളർ തരങ്ങളിലേക്കും ഒരു പ്രത്യേക കൺട്രോളർ ക്രമീകരണം എങ്ങനെ തിരഞ്ഞെടുക്കും അതിനാൽ വിവിധ മാർഗങ്ങളുണ്ടാകാം ഉദാഹരണത്തിന് ആദ്യത്തേത് പ്രോസസ് പ്ലാന്റ് മോഡൽ കൃത്യമായി അറിയാമെന്ന് നിങ്ങൾ കരുതുന്നുവെന്ന് കരുതുക ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇത് നന്നായി പ്രകടിപ്പിക്കാൻ കഴിയും ക്ലോസ്ഡ് ലൂപ്പ് റഫറൻസ് മോഡലും അറിയപ്പെടുന്നു അതിനർത്ഥം ഓപ്പൺ ലൂപ്പ് പ്ലാന്റ് വളരെ കൃത്യമായി അറിയാമെന്നും നമ്മളുടെ നിയന്ത്രണ ആവശ്യകത ഒരു റഫറൻസ് മോഡലിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രകടിപ്പിക്കാമെന്നും ആണ് അതായത് നിയന്ത്രണത്തിനുശേഷം ക്ലോസ്ഡ് ലൂപ്പ് പ്ലാന്റ് മറ്റൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ പോലെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഈ രണ്ട് ആവശ്യകതകളിൽ നിന്ന് നമുക്ക് കൺട്രോളർ പരിഹരിക്കാൻ കഴിയും അതിനാൽ മതിയായ കൃത്യതയുടെ പ്രോസസ് മോഡൽ നമുക്ക് ലഭ്യമാണെങ്കിൽ മാത്രമേ ഈ രീതി ബാധകമാകൂ റഫറൻസ് മോഡലിന് വിവരിക്കാൻ കഴിയുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് സ്വഭാവം നിങ്ങൾക്ക് ഈ രണ്ട് നിബന്ധനകളും തൃപ്തികരമാണെങ്കിൽ മുകളിലുള്ള രണ്ട് മോഡലുകളിൽ നിന്ന് കൺട്രോളർ പാരാമീറ്ററുകൾ എങ്ങനെ വിശകലനപരമായി പരിഹരിക്കാനാകും അതിനാൽ നമുക്ക് ഒരു ഉദാഹരണമുണ്ട് റഫറൻസ് മാതൃകഈ ഉദാഹരണത്തിൽ 11STc ആണ് യഥാർത്ഥത്തിൽ കുറച്ച് സമയം T സിഎന്നു ഞാൻ ക്ലോസ്ഡ് ലൂപ്പ് പ്ലാന്റ് Tc ടൈം കോൺസ്റ്റൻന്റ് ഉള്ള ഒരു ആദ്യ ഓർഡർ പ്രക്രിയ പ്രക്രിയയായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു എന്നു കരുതുക എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് പ്രോസസ് മോഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അത് അറിയപ്പെടുന്നത് GGc 1GGc എന്നാണ് കൺട്രോൾ സിദ്ധാന്തം പ്രകാരം G എന്നത് ഓപ്പൺ ലൂപ്പ് പ്ലാൻറ് ഇൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉം ഫോർ വേർഡ് പാതയിലുള്ള ഉള്ള കൺട്രോളർ ഇൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻആണ് ഇപ്പോൾ എനിക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വേണം ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ GGc 1 GGc ഇതിന് തുല്യമായിരിക്കണം ഈ ട്രാൻസ്ഫർ ഫംഗ്ഷന് ഞാൻ അവയെ തുലനം ചെയ്യുകയാണെങ്കിൽ ഞാൻ കണ്ടെത്തിയത് പ്ലാന്റ് മോഡൽ അറിയണമെന്ന് ആണ് പ്ലാന്റ് രണ്ടാമത്തെ ഓർഡർ order പ്രക്രിയയാണെന്നും ഓവർ ഡാംപ്ഡ് ആണെന്നും ഞാൻ അനുമാനിക്കുന്നു ഇതിന് രണ്ട് സമയ സ്ഥിരതകളുണ്ട് ഒന്ന് T1 ഉം മറ്റൊന്ന് T2 ഉം ആണ് സാധാരണയായി അവ Tcയേക്കാൾ വലുതായിരിക്കും നമ്മൾ എന്തെങ്കിലും നിയന്ത്രിക്കുമ്പോൾ സാധാരണയായി അതിന്റെ പ്രതികരണം വേഗത്തിലാക്കേണ്ടതുണ്ട് അതിനാൽ T1 ഉം T2 ഉം Tc എന്നിവയേക്കാൾ ചെറുതായിരിക്കും അതിനാൽ ഇത് പരിഹരിച്ച ശേഷം നമുക്ക് എങ്ങനെയുള്ള ഒരു Gc ലഭിക്കും GGc 1GGc നിങ്ങൾ പരിഹരിച്ചാൽ G യുടെ ഈ മൂല്യവും റഫറൻസ് മോഡലിന്റെ ഈ മൂല്യവും ഉപയോഗിച്ച് ഒരാൾക്ക് കൺട്രോളർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഇത് Kp ആയി മാറുന്നുവെന്നും ഇത് നിങ്ങളുടെ Ti ആകുകയും ഇത് നിങ്ങളുടെ Td ആയി മാറുകയും ചെയ്യുന്നുവെന്ന് ഇത് വളരെ രസകരമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു PID കൺട്രോളർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല നമുക്ക് ഈ പ്ലാന്റ് ആണ് വേണ്ടത് ഈ മോഡൽ പോലെ പെരുമാറാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കൺട്രോളർ യഥാർത്ഥത്തിൽ ഒരു PID കൺട്രോളറാണ് അതിനാൽ PID കൺട്രോളറുകൾക്ക് നിങ്ങൾക്ക് മികച്ച പ്രതികരണം നൽകാൻ കഴിയുന്നത് വളരെ നല്ലതാണ്